കോഴ്സ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ടിബറ്റൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ സമയബന്ധിതമായി അഭയാർത്ഥി സ്ഥലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാസ്തവത്തിൽ ഈ വർക്ക് യഥാർത്ഥത്തിൽ എന്റെയും അതുപോലെ ടു മ്യൂണിക്കിൽ നിന്നുള്ള ഡോ സോറൻ ഷോബലിന്റെയും സംയുക്ത മേൽനോട്ടത്തിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയും അവളുടെ മാസ്റ്റേഴ്സ് പ്രബന്ധത്തിന്റെ ഭാഗമായും ഒരു തീസിസിന്റേയും ഭാഗമായി ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് അതിനാൽ ടിബറ്റൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ എന്റെ വിദ്യാർത്ഥിയായ ഇന്ദു ഷാജി വികസിപ്പിച്ചെടുത്ത അഭയാർത്ഥി നാടകങ്ങളുടെ ശീർഷക നിർമ്മാണമാണിത് കൂടാതെ ഈ പ്രത്യേക കൃതി ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിനായി ലണ്ടൻ സെന്ററിലും ഒരു പേപ്പറായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഈ പ്രത്യേക അന്വേഷണത്തിൽ ഇന്ദുവിന്റെ യാത്ര എങ്ങനെ ഏറ്റെടുത്തു എന്നതിന്റെ ഒരു അവലോകനം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു കൂടാതെ അവൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ജെർമനിയിലെ DAAD സ്കോളര്ഷിപ്പിന്റെ ഭാഗമായി ജർമ്മനിയിലെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെയും കൂടുതൽ കേസ് പഠനങ്ങൾ നടത്തുകയും ഒരു കൂട്ടായ ധാരണ എന്ന നിലയിൽ ചിലത് നടപ്പിലാക്കുകയും ചെയ്തു എങ്ങനെ അഭയാർത്ഥി സ്ഥാനചലനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നു നാടകങ്ങൾ നടത്താനും കാലക്രമേണ അവ എങ്ങനെ രൂപാന്തരപ്പെടുന്നുവെന്നും വിവിധ സന്ദർഭങ്ങളിൽ കമ്മ്യൂണിറ്റികൾ ഏത് തരത്തിലുള്ള അർത്ഥങ്ങളാണ് വികസിപ്പിക്കുന്നത് എന്നും ഉള്ള പഠനങ്ങളിൽ അവൾ ശ്രദ്ധ ചെലുത്തി അഭയാർത്ഥി സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സംഘർഷത്തിന്റെ ഫലമായോ പീഡനത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള സാമാന്യവൽക്കരിച്ച അക്രമത്തിന്റെയോ ഫലമായി ലോകമെമ്പാടുമുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷുബ്ധമായോ ബലമായി പ്രദർശിപ്പിച്ച 68 5 ദശലക്ഷത്തെക്കുറിച്ചുള്ള സ്ഥിതിവിവരക്കണക്കുകൾ ചർച്ചചെയ്യുന്നു സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം യുഎൻഎച്ച്സിആറിന്റെUNHCR s കൽപ്പന പ്രകാരം 19 9 ദശലക്ഷം അഭയാർത്ഥികളും അതിൽ 5 4 ദശലക്ഷം പലസ്തീൻ അഭയാർത്ഥികളും യുഎൻആർഡബ്ല്യുഎയുടെ ഉത്തരവും 40 ദശലക്ഷം ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവരും 31 ദശലക്ഷം അഭയാർത്ഥികളും ആണ് ഇതിലേക്ക് വരുന്നത് ഒരു ആഗോള സാഹചര്യമാണ് ഇന്ത്യയിൽ ഏകദേശം 209234 പേരുണ്ട് അതിൽ ഏകദേശം 52 ഇന്ത്യയിലുള്ള അഭയാർത്ഥികളിൽ പകുതിയിലധികം ടിബറ്റന്മാരാണ് അതായത് ഏകദേശം 110000 പേർ ടിബറ്റിൽ നിന്നുള്ളവരാണ് എന്നോർക്കുമ്പോൾ ഞാൻ ഖേദിക്കുന്നു ക്ഷമിക്കണം 209234 ഇപ്പോൾ അഭയാർത്ഥികളെപ്പറ്റി പറയുമ്പോൾ ഒരു അഭയാർത്ഥിയുടെ സന്ദർഭം അവന്റെ അല്ലെങ്കിൽ അവളുടെ സെറ്റിൽമെന്റ് പ്രക്രിയ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഒരു സ്വാംശീകരണ പ്രക്രിയയാണ് മൾട്ടി കൾച്ചറലിസത്തിനൊപ്പം അത് വേർതിരിക്കലാണോ അതോ സംയോജനത്തിന്റെ ഭാഗമാണോ എന്ന് നിങ്ങൾ അറിയുക കാരണം ഒരു അഭയാർത്ഥി അല്ലെങ്കിൽ അഭയം വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്ത വികസന സന്ദർഭത്തിൽ നിന്നും വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും വരുന്നു അവൻ മറ്റൊരു പശ്ചാത്തലത്തിൽ താമസസൌകര്യം നേടാൻ ശ്രമിച്ചു ഇത് അതിന്റെ ഹോസ്റ്റ് വശത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഒരാൾക്ക് എങ്ങനെ കഴിയും ആ പ്രക്രിയയിൽ ഒരാൾ എങ്ങനെ വേർതിരിക്കപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ സംയോജിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം അതിനാൽ UNHCR അനുസരിച്ച് അത് സ്വമേധയാ സ്വദേശത്തേക്ക് കൊണ്ടുപോകൽ പ്രാദേശിക ഏകീകരണം പ്രാദേശിക പുനരധിവാസം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഈ വേർതിരിവും സംയോജനാവും അതിന്റെ മാതൃക നോക്കിയാൽ ഏതാണ് മികച്ച തന്ത്രമെന്ന് നിങ്ങൾ അറിയുക വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അഭയാർത്ഥികളുമായി പ്രവർത്തിക്കുന്ന ധാരാളം ഓർഗനൈസേഷനുകൾ അഥിതികളായ അഭയാർത്ഥികലെ അവരുടെ സംഘർഷങ്ങളെ ഏകീകരിച്ചും സമാനസ്വയിപ്പിച്ചും അതിലെ മാനുഷിക മൂല്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഈ വർക്കിൽ ലെഫെബ്വ്രെയുടെ ബഹിരാകാശ ഉൽപ്പാദന സിദ്ധാന്തം ഇന്ദു സ്വീകരിച്ചു കാരണം ലെഫെബ്വ്രെ ഹെൻറി ലെഫെബ്വ്രെ സ്ഥലത്തിന്റെ 3 വ്യത്യസ്ത ഓന്റോളജിക്കൽ സ്ഥാനങ്ങളെക്കുറിച്ച് അത് എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നതിനെക്കുറിച്ച് സംസാരിച്ച സാമൂഹികശാസ്ത്ര ഘടകങ്ങളിലൊന്നാണിത് അതിനാൽ ആദ്യത്തെ വശം അദ്ദേഹം മനസ്സിലാക്കിയ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു സ്പെയ്സിന്റെ എല്ലാ ഉപയോക്താക്കളുടെയും സ്പേഷ്യൽ പ്രാക്ടീസ് വഴി നിർമിച്ച സ്ഥലമാണ് അതിനാൽ ഇത് ഒരു പ്രാദേശിക ഭാഷാ പ്രക്രിയയാണോ ഇത് വാസയോഗ്യമായ പ്രക്രിയയാണോ ഇടം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം കാരണം അതിനോട് ഒരുതരം അറ്റാച്ച്മെന്റ് ഉള്ളതിനാലാണിത് വിഭാവനം ചെയ്ത ഇടം അത് ദർശനക്കാർ നിർമ്മിച്ച ഇടമാണ് അത് ആസൂത്രകരോ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നവരോ ആകട്ടെ അല്ലെങ്കിൽ അത് ദർശകരുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവർ ഈ സ്ഥലത്തെ എങ്ങനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ സ്ഥലം എങ്ങനെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് മൂന്നാമത്തെ വശം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നു കാരണം ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്നു അവിടെയാണ് ഒരു നിശ്ചിത സ്ഥലത്തോടുള്ള ആളുകളുടെ അദൃശ്യമായ അടുപ്പം അതിനാൽ അവർ ഒരു സ്ഥലത്തോട് ചില വൈകാരിക അടുപ്പം വളർത്തിയെടുക്കുന്നു അവർ അവരുടേതായ ഒരു ബോധം വളർത്തിയെടുക്കുന്നു അങ്ങനെ നിങ്ങൾക്കറിയാമോ ആവാസവ്യവസ്ഥയിലെ ശീലം അത് അവരുടെ വിശ്വാസ വ്യവസ്ഥകളുടെ രൂപത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അവരുടെ ദൈനംദിന പെരുമാറ്റം അവരുടെ ധാരണ എന്നിവ സ്ഥലം അവരുടെ യോഗ്യമായ ആശങ്കകൾ എല്ലാം ഒരു ജീവനുള്ള സ്ഥലത്തിന്റെ രൂപത്തിൽ കൂട്ടിച്ചേർക്കും സോഷ്യോളജിസ്റ്റുകൾ പ്ലാനർമാർ അർബൻ ഡിസൈനർമാർ ഹൌസിംഗ് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നിവരിൽ നിന്നും വ്യത്യസ്തരായ ഗവേഷകരിൽ നിന്നും ബഹിരാകാശ ഉൽപാദനത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക സിദ്ധാന്തം വ്യാപകമായി ഉപയോഗിച്ചു അതിനാൽ അവർ ഈ പ്രത്യേക സിദ്ധാന്തം സ്വീകരിച്ചു അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സ്ഥാനചലനത്തിൻ കീഴിലുള്ള അഭയാർത്ഥി സന്ദർഭത്തെക്കുറിച്ചാണ് അവിടെ മുഴുവൻ സന്ദർഭവും വിപരീതമാക്കപ്പെടുകയും അത് എങ്ങനെ കൃത്യസമയത്ത് പ്രോഗ്രാം ചെയ്യുകയും അത് എങ്ങനെ പ്രകടമാവുകയും ചെയ്തു അത് എങ്ങനെ രൂപപ്പെടുത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ചാണ് അതിനാൽ ഇത് മനസ്സിലാക്കാൻ ഈ തിയറി ഏറ്റവും ഉപയോഗപ്രദമാണെന്ന് ഞങ്ങൾ കരുതി എവിടെയാണ് യഥാർത്ഥ സിദ്ധാന്തം നമുക്കുള്ളത് എവിടെയാണ് സമ്പൂർണ്ണ ഇടം നമുക്കുള്ളത് മനസ്സിലാക്കിയ ഇടം എവിടെയാണ് ഒരു പ്രാദേശിക സന്ദർഭം എവിടെയാണുള്ളത് ഇതെല്ലാം പിന്തുടരുന്ന കേവലമായ ഇടത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അമൂർത്തമായ സ്ഥലത്ത് എവിടെയാണ് സങ്കൽപ്പിച്ച സ്ഥലം അതിനെ ഏറ്റെടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് അറിയാവുന്ന ദർശകന്മാരും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളും മുഴുവൻ പ്രോഗ്രാമിനെയും അതിൽ നിന്ന് നയിക്കുക എന്നാൽ സമയം നീങ്ങുമ്പോൾ ഡിഫറൻഷ്യൽ സ്പെയ്സിൽ തുടർന്ന് വ്യത്യസ്ത മുൻഗണനകളും വ്യത്യസ്ത സംഘട്ടന സജ്ജീകരണങ്ങളും എങ്ങനെ പൊരുത്തപ്പെടുത്തുന്നു ഒരു ഡിഫറൻഷ്യൽ സ്പെയ്സ് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എവിടെയാണ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ നയിക്കുന്നു നിങ്ങളുടെ ഹോം അറ്റാച്ച്മെന്റുകളുടെ പശ്ചാത്തലവും നിലവിലെ സന്ദർഭവും സഹിതം ജീവിച്ചിരിക്കുന്ന സ്ഥാലം അതിനോട് പ്രതികരിക്കുന്നു അതിനാൽ DAAD സ്കോളർഷിപ്പിന്റെ ഭാഗമായി അവൾക്ക് ടു മ്യൂണിക്കിൽ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമും ലഭിച്ചു കൂടാതെ ജർമ്മനിയിലും പാരീസിലും സ്ഥലംമാറ്റ കേസുകളുടെ ചില കേസുകൾ അവൾ സന്ദർശിച്ചു കൂടാതെ ഹാംബർഗ് പാരീസ് ജാഫ്ന എന്നിവിടങ്ങളിൽ ഇവയെല്ലാം സന്ദർശിച്ചു അതിനാൽ ഈ ഓരോ സ്കെയിലുകളിലൂടെയും ഞാൻ വളരെ വേഗത്തിൽ കടന്നുപോകും പാരീസിലെ ചെറിയ ജാഫ്ന അതിനാൽ പാരീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ആസൂത്രിതമായ ഒരു വികസനത്തെക്കുറിച്ചും ഇതുപോലെയാണെങ്കിൽ ഒരു സ്ഥല ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ ലിറ്റിൽ ജാഫ്നയിലെ യാഥാർത്ഥ്യമായ വസ്തുത ഇതാണ് നിങ്ങൾക്ക് ഹോർഡിംഗുകൾ ഉള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും സൂപ്പർമാർക്കറ്റ് ബസാർ അല്ലെങ്കിൽ ഒരു ബസാർ പോലെയാണ് ഇത് കാണപ്പെടുന്നത് അവിടെ നിങ്ങൾക്ക് പ്രാദേശികവൽക്കരിച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ട് അത് ആ പ്രത്യേക സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് കൂടാതെ ഉത്സവങ്ങൾ ആചാരങ്ങൾ മതപരമായ കാര്യങ്ങൾ പോലും വിദേശത്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം കെട്ടിടങ്ങളിലോ നിർമ്മിച്ച രൂപങ്ങളിലോ അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ ഞങ്ങൾ കോവിലുകൾ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ ഒരു വിദേശ സന്ദർഭത്തിൽ അവ എങ്ങനെ പ്രതിഫലിക്കുന്നു അതിനാൽ മുൻഭാഗങ്ങൾ ആ പ്രത്യേക സമുദായത്തിന്റെ മതപരമായ ഐഡന്റിറ്റിയുടെ ഐഡന്റിറ്റിയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പ്രകടമാക്കിയിരിക്കുന്നു മാത്രമല്ല മുൻഭാഗത്തെ വളരെ വ്യക്തമായി നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് പാരീസ് പശ്ചാത്തലത്തിൽ ഉയരത്തിനും തെരുവ് സുഹൃത്തുക്കൾക്കും ചില നിയന്ത്രണ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാൽ അവർ ഇപ്പോഴും അവരുടെ സ്വന്തം ബോധത്തിന്റെ ഒരു ക്രമീകരണത്തിലൂടെയും അതുപോലെ തന്നെ ടെംപിൾ ഗണേശുമായി temple Ganesh എങ്ങനെ പൊരുത്തപ്പെടാൻ ശ്രമിച്ചുവെന്ന് പരിഗണിക്കുന്നു ഇതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൊളോണി പള്ളിയാണ് അവിടെ കത്തീഡ്രൽ ഉണ്ടായിരുന്ന പള്ളി മോസ്ക് ആയി പരിവർത്തനം ചെയ്യപ്പെട്ടു അക്കാരണത്താൽ പ്രാദേശിക സമൂഹങ്ങളുമായി എങ്ങനെ തർക്കം ഉണ്ടാകുന്നു കാരണം ഒരു പള്ളി ഇസ്ലാമികവൽക്കരണ പ്രക്രിയയിൽ പലരും പ്രക്ഷോഭം നടത്താൻ ശ്രമിച്ചു വ്യത്യസ്തമായ ഒരു സമൂഹം വരുന്നുണ്ടെന്നും അവരുടെ നിലവിലുള്ള ഐഡന്റിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിൽ ഒരു വലിയ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നുണ്ടെന്നും അവരറിഞ്ഞു അവർക്ക് അതിൽ ഭയമുണ്ടായിരുന്നു അതുപോലെ യഹൂദ കുടിയേറ്റക്കാരുണ്ട് ഇതൊരു അഭയാർത്ഥി കഫേയാണ് ഒരു കത്തീഡ്രൽ പള്ളി മസ്ജിദായി മാറിയതെങ്ങനെ മുകൾഭാഗം എങ്ങനെ മാറ്റിസ്ഥാപിച്ചു വെളിച്ചത്തിന്റെ നിറമായ ഒരു പച്ച വെളിച്ചവും പ്രതിഫലിക്കുന്നു അതിനാൽ അത് മതവ്യവസ്ഥയിലെ ആ പ്രത്യേക സമൂഹത്തിന്റെ ഐഡന്റിറ്റിയെ പ്രതിഫലിപ്പിക്കുന്നു അതുപോലെ സോവിയറ്റ് കാലഘട്ടത്തിലെ അഭയാർത്ഥികളെയും അവർ എങ്ങനെ ഇത്തരത്തിലുള്ള പള്ളികൾ നിർമ്മിക്കുന്നു എന്നതിനെയും പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ആഗോള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമോ അവൾ അത് വിശകലനം ചെയ്ത രീതിയുടെ ലിസ്റ്റ് ഇതാണ് ഇത് കേസ് പഠനങ്ങളുടെ ഒരു പട്ടികയാണ് അത് ഏത് സ്കെയിൽ പ്രതിഫലിച്ചു സമ്പദ്വ്യവസ്ഥ അധിനിവേശ തന്ത്രങ്ങൾ എന്താണ് ഗവൺമെന്റ് തന്ത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു ആസൂത്രണ തന്ത്രങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് യൂറോപ്യൻ കേസ് പഠനങ്ങളിൽ നിന്ന് വിഭാവനം ചെയ്തതും മനസ്സിലാക്കിയതും ജീവിച്ചതുമായ ഇടം വിശകലനം ചെയ്തത് അതിനാൽ ടിബറ്റൻ വശം മുതൽ അഭയാർത്ഥികളുടെ ഭവനരഹിതരും ദരിദ്രരുമായ ഗ്രൂപ്പുകളുടെ വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കാനും ധനസഹായം നൽകാനുമുള്ള കഴിവ് ശ്രദ്ധേയമാണ് ടിബറ്റൻ ശ്രദ്ധേയമായ ഉയർന്ന വാസ്തുവിദ്യാ നിലവാരമുള്ള നിരവധി ആശ്രമങ്ങൾ നിർമ്മിച്ചു കൂടാതെ ടിബറ്റിലേതിന് സമാനമായ പ്രവർത്തനക്ഷമമായ സന്യാസ സമൂഹങ്ങൾ വികസിപ്പിക്കുന്നതിലും അവർ വിജയിച്ചു ടിബറ്റ് ഇരുപതാം നൂറ്റാണ്ടിലെ അത്ഭുതങ്ങളിൽ ഒന്ന് അതിനാൽ അവർ അവിടെ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവർ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർ ടിബറ്റിൽ നിന്ന് ഇതിനകം അറിയാവുന്ന സ്ഥലങ്ങളിലൂടെ അവരുടെ അറ്റാച്ചുമെന്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ സന്യാസ സമൂഹങ്ങളായി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു മറ്റേതൊരു കമ്മ്യൂണിറ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ നിർദ്ദിഷ്ടമാണ് ടിബറ്റുകാർ ആ രീതിയിൽ വളരെ അദ്വിതീയരാണ് അതിനാൽ ടിബറ്റൻ കമ്മ്യൂണിറ്റികളുടെ കാര്യത്തിലും പ്രത്യേകിച്ച് ഇന്ത്യൻ സബർബനിലും ഗ്രാമീണ പശ്ചാത്തലത്തിലും നിങ്ങൾക്ക് അറിയാവുന്ന ഈ പ്രത്യേക ഹൈബ്രിഡ് സാംസ്കാരിക പ്രതികരണശേഷിയുള്ള നിർമ്മിത അന്തരീക്ഷം എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് ഈ മുഴുവൻ ഗവേഷണത്തെയും കുറിച്ചുള്ള ഒരു ഗവേഷണമുണ്ട് കാലക്രമേണ ഹൈബ്രിഡ് സെറ്റിൽമെന്റുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഒരു ഹൈബ്രിഡ് സെറ്റിൽമെന്റിലെ സാംസ്കാരികവും നിർമ്മിതവുമായ പരിതസ്ഥിതികൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സ്ഥലം ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള സൈദ്ധാന്തിക ധാരണ എങ്ങനെ ഒരു അഭയാർത്ഥി സന്ദർഭത്തിൽ ലെഫെബ്വ്രെയുടെ സ്ഥലം പുനഃപരിശോധിക്കും അത് എങ്ങനെ ഒരു ചട്ടക്കൂടായി മാറുന്നു അഭയാർത്ഥി സ്ഥലങ്ങളെ എങ്ങനെ മനസ്സിലാക്കാൻ ഒരു ചട്ടക്കൂട് സജ്ജീകരിക്കുന്നു അവ എങ്ങനെ യഥാസമയം നിർമ്മിക്കപ്പെട്ടു എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും സാംസ്കാരിക ഐഡന്റിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നരവംശശാസ്ത്രജ്ഞനിൽ നിന്ന് ആവശ്യമായ സാഹിത്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ഭൂമിശാസ്ത്രജ്ഞരിൽ നിന്നും വിവിധ സാമൂഹ്യശാസ്ത്രജ്ഞരിൽ നിന്നും ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം ആ സാഹിത്യ അവലോകനത്തെ അടിസ്ഥാനമാക്കി ഈ അന്വേഷണ ചട്ടക്കൂട് ഇതിലെ സാമൂഹ്യശാസ്ത്രപരമായ ഘടകത്തെയും നരവംശശാസ്ത്ര ഘടകത്തെയും വീക്ഷിക്കുന്നു കുടുംബ ബന്ധവും ലിംഗപരമായ റോളുകളും രാഷ്ട്രീയവും വിശ്വാസ സമ്പ്രദായവും വീണ്ടും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന സാമൂഹിക ഘടനകളും സാമ്പത്തികവും ഉപജീവനവും ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ ഭാഷ പങ്കിട്ട അനുഭവങ്ങൾ കൂട്ടായ മെമ്മറി എന്നിവയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിനെ ശക്തിപ്പെടുത്തുന്ന ഘടനകൾ എന്തൊക്കെയാണ് ഇവയെല്ലാം വീക്ഷിക്കുന്നു എന്നിട്ട് അവൾ അതിന്റെ മുഴുവൻ സെറ്റിലും കെട്ടിപ്പടുത്തു ഒന്ന് അതിന്റെ സാമൂഹ്യശാസ്ത്ര ഘടകമാണ് അത് യഥാർത്ഥത്തിൽ ഐഡന്റിറ്റി സൃഷ്ടിക്കുന്ന ഘടനകളെക്കുറിച്ച് സംസാരിക്കുന്നു ഗവേഷണ വേരിയബിളുകളുമായി ബന്ധപ്പെട്ട് പരിവർത്തനത്തെ വിലയിരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സാംസ്കാരിക ഭൂമിശാസ്ത്രമുണ്ട് സമയമാണ് പ്രധാന വേരിയബിളുകൾ സന്ദർഭം മാറുന്ന നിമിഷം അത് എങ്ങനെ മാറുന്നു ആ നിമിഷം സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് സ്ഥലത്തിലും സമയത്തിലും എങ്ങനെ പ്രതിഫലിച്ചു എന്നതും വ്യത്യസ്തമാണ് അങ്ങനെയാണ് ഈ മുഴുവൻ ചട്ടക്കൂടും ഒന്നാം തലമുറയും രണ്ടാം തലമുറയും മൂന്നാം തലമുറയും അതിനാൽ ഞങ്ങൾ സമയത്തിന്റെ മുഴുവൻ ക്രമവും നോക്കി ആളുകൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു എന്നതിന്റെ മുഴുവൻ ക്രമവും ഞങ്ങൾ പരിശോധിച്ചു കൂടാതെ അന്വേഷണ രീതികളെക്കുറിച്ച് വാക്കാലുള്ള സാക്ഷ്യങ്ങളായി ദൃശ്യ ഡാറ്റയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോർഫോളജിക്കൽ പഠനങ്ങൾ നിരീക്ഷണം വിദഗ്ദ്ധോപദേശം അതിനാൽ അത് പോലെ ഒരു വലിയ ചട്ടക്കൂടിന്റെ ഒരു മുഴുവൻ സെറ്റും അത് പരിശോധിച്ചു അതിനാൽ ഹൈബ്രിഡ് സെറ്റിൽമെന്റുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് പറയുമ്പോൾ ഒരാൾ ടിബറ്റിൽ നിന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അവ എത്രത്തോളം പൊരുത്തപ്പെട്ടു ഇവിടെ ടിബറ്റുകാരുടെ സാംസ്കാരിക ഐഡന്റിറ്റി ഇന്ത്യയിലെ നിർമ്മിത പരിസ്ഥിതിയുമായി ഇടകലർന്നപ്പോൾ അവിടെയാണ് ഇത് ഒരു സങ്കര ടിബറ്റൻ സെറ്റിൽമെന്റ് സൃഷ്ടിച്ചത് കാരണം അവർ പരസ്പരം കടം വാങ്ങുന്നു അങ്ങനെയാണ് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് അതിനാൽ ടിബറ്റിന്റെ നാട് സംസ്കാരം വാസ്തുവിദ്യ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലാസയിൽ ഞങ്ങൾ ഇപ്പോൾ ലാസയെ കാണുന്നത് വളരെ ഇടുങ്ങിയ തെരുവുകളും അഡോബ് നിർമ്മാണങ്ങളും ടിബറ്റൻ വാസ്തുവിദ്യയുടെ കൂറ്റൻ ആശ്രമങ്ങളും ഉൾകൊള്ളുന്ന നാടായിട്ടാണ് അതിനാൽ ഒരു ടിബറ്റൻ സാംസ്കാരിക അന്തരീക്ഷമുണ്ട് നമ്മൾ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തണുത്ത മരുഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ചും ഉയർന്ന ഉയരത്തെക്കുറിച്ചും ടിബറ്റൻ പീഠഭൂമിയെക്കുറിച്ചും വരണ്ട ഭൂപ്രകൃതിയെക്കുറിച്ചും വളരെ വിരളമായ സസ്യജാലങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു സാധാരണ ടിബറ്റൻ ഭൂപ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് കുടുംബ ബന്ധവും ലിംഗഭേദവും നോക്കുമ്പോൾ അവർക്ക് ഒരു ഭാര്യക്ക് 2 3 സഹോദരങ്ങളായിട്ടുള്ള ഭർത്താക്കന്മാർ എന്ന സമ്പ്രദായം നിലവിലുണ്ട് അതേസമയം മതനേതാവ് ദലൈലാമയായി കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയ ഭരണകൂടവും രാഷ്ട്രീയ തലവനായിരുന്നു മതം ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ടിബറ്റൻ സമൂഹവും വീണ്ടും സമ്പദ്വ്യവസ്ഥയും ഉപജീവനവും ഇതിൽ പങ്കു വഹിച്ചിട്ടുണ്ട് അവർ അടിസ്ഥാനപരമായി കർഷകർ ആണ് ഉപജീവനത്തിനായി ബാർലി ഗോതമ്പ് എന്നീ കൃഷിയും കരകൌശല വസ്തുക്കൾ കുശവൻമാർ വിദഗ്ധ തൊഴിലാളികൾ എന്നീ ജോലികളും അവർ വഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആശ്രമം ടിബറ്റൻ സ്ഥാപനങ്ങൾ ഏതാനും മതേതര സ്കൂളുകൾ എന്നിവയും അവർക്കുണ്ട് അവരുടെ ഭാഷ പ്രചരിപ്പിക്കുന്നതിലും അവരുടെ മതപരമായ മാർഗ്ഗനിർദ്ദേശങ്ങളിലൂടെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെയും പൊതുവായ ആചാരങ്ങളിലൂടെയും അവർ വളരെ യാഥാസ്ഥിതികരായതിനാൽ അവരുടെ ശവസംസ്കാരം ഉത്സവങ്ങൾ ഭക്ഷണശീലങ്ങൾ എന്നിവ എങ്ങനെയെന്ന് അത് തലമുറതലമുറയായി പങ്കിടുവാൻ അവർ ശ്രമിച്ചു നിർമ്മിത പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമങ്ങളെക്കുറിച്ചാണ് അവ ആക്സസ് ചെയ്യാൻ പ്രയാസമാണ് സന്യാസിമാർക്കും അസംബ്ലി ഹാളുകൾക്കും പ്രത്യേക ഇടങ്ങളുണ്ട് ഒരു ടിബറ്റൻ സംസ്കാരത്തിൽ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ ഏതാണ്ട് മൂന്നാമത്തെ കുട്ടി സന്യാസിയായി മാറുന്നു അങ്ങനെയാണ് ഈ മതപരമായ രീതി മുഴുവൻ തുടരുന്നത് സ്തൂപങ്ങൾ മതപരമായി പ്രാധാന്യമുള്ള പുണ്യവസ്തുക്കൾ അടങ്ങുന്ന മണിയുടെ ആകൃതിയിലുള്ള ചോർട്ടൻസ് ഐ ആകൃതിയിലോ എൽ ആകൃതിയിലോ ഉള്ള മുറ്റങ്ങൾ വെയിലേറ്റ ഇഷ്ടികകളോ ഇടിച്ചിട്ട മണ്ണ് ഭിത്തികളോ ആകാം അതിനായി ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിസൈനിലുള്ള തടി ഫ്രെയിമുകളും മേൽക്കൂരയുടെ മുകളിലുള്ള പ്രാർത്ഥന പതാകകളും നിങ്ങൾക്ക് കാണാനാകുന്ന വിശദാംശങ്ങളും വാതിലുകളുടെയും ജനലുകളുടെയും അലങ്കാരത്തിനുള്ള ഒരു തരം കോഡാണ് അതിനാൽ വളരെ സാധാരണമായ നിലവാരമുള്ള ആശ്രമങ്ങളുണ്ട് വാസസ്ഥലങ്ങൾക്ക് പോലും അവ എങ്ങനെ പുനരുപയോഗിക്കുന്നു അല്ലെങ്കിൽ അലങ്കരിക്കുന്നു അവരുടെ ഫാക്ടിയ്സ് എങ്ങനെ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു സാധാരണ മാനദണ്ഡമുണ്ട് അതിനാൽ വ്യത്യസ്തമായ പൊരുത്തപ്പെടുത്തൽ പ്രക്രിയ മനസിലാക്കാൻ ഇന്ദു ഏകദേശം 3 വ്യത്യസ്ത സാംസ്കാരിക വൈവിധ്യമാർന്ന വാസസ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു ഒന്ന് ലഡാക്ക് പ്രദേശത്താണ് ഇത് ടിബറ്റിനോട് ചേർന്നുള്ള ഒരു ചോഗ്ലാംസർ ആണ് രണ്ടാമത്തേത് ഒരു തരം നഗരപ്രദേശത്തുള്ള ഒരു ക്ലെമന്റ് പട്ടണമാണ് അത് ഡെറാഡൂണിന് സമീപമുള്ള പ്രദേശം മൂന്നാമത്തേത് ഒരുതരം ഗ്രാമീണ സജ്ജീകരണമാണ് അത് കർണാടകത്തിനടുത്തുള്ള ഒരു ബൈലക്കുപ്പയാണ് അതിനാൽ നിങ്ങൾ ഈ വൈവിധ്യമാർന്ന ക്രമീകരണങ്ങൾ നോക്കുകയാണെങ്കിൽ ടിബറ്റൻ ഭൂപ്രകൃതിയായ ചോഗ്ലാംസാറിനോട് ചേർന്നുള്ള തണുത്ത മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റിലെ സാങ്മു ഗ്രാമമാണ് ഒന്ന്അതുപോലെ അവ ഉൾപ്പെടുന്നവയോട് വളരെ അടുത്തായി ബൈലക്കുപ്പയിലെ മേൽക്കൂരകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മേൽക്കൂരകൾ മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളും വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു മംഗലാപുരം ടൈൽസ് ആയ ടൈൽസ് മേൽക്കൂരയും അതിനോടടുത്തുള്ള എല്ലാ കാര്യങ്ങളും കർണാടകക്കാരെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഠിനമായ വാസസ്ഥലങ്ങൾ പോലെയിരിക്കും ഡെറാഡൂണിലെ ക്ലെമന്റ് പട്ടണത്തിൽ ഇത് ഒരുതരം നഗര പശ്ചാത്തലമാണ് പക്ഷേ ഇപ്പോഴും ടിബറ്റൻ ആശ്രമങ്ങളുടെ ഒരു ഫാബ്രിക് ഉണ്ട് ഇവിടെ കെട്ടിടങ്ങളുടെ വലിപ്പം വ്യത്യസ്തമാണ് അതിനാൽ വൈവിധ്യമാർന്ന കാര്യങ്ങളിൽ ഒന്ന് സെറ്റിൽമെന്റിന്റെ സവിശേഷതകൾ സെറ്റിൽമെന്റിന്റെ സാമൂഹിക ഘടനകൾ അവ എങ്ങനെ സ്വീകരിക്കാം നഗര രൂപഘടന തെരുവ് സ്വഭാവം പ്ലോട്ട് സംവിധാനങ്ങൾ നഗരങ്ങളിൽ നിന്നുള്ള ഈ ഫണൽ എങ്ങനെയെന്ന് മനസ്സിലാക്കാം ടിഷ്യു സ്ട്രീറ്റ് സിസ്റ്റം പ്ലോട്ട് സിസ്റ്റം ബിൽഡിംഗ് സിസ്റ്റങ്ങൾ വളരെ മാക്രോ മുതൽ മൈക്രോ ലെവൽ വരെ ഇവ എങ്ങനെ മാറിയെന്ന് പരിശോധിച്ചു നിങ്ങൾക്ക് മനസിലാക്കാം സാംസ്കാരിക ഭൂമിശാസ്ത്രവും സമയവും ഒന്നാം തലമുറ 1 5 തലമുറ രണ്ടാം തലമുറ എന്നിവയും അന്വേഷിച്ചു അതിനാൽ എങ്ങനെ പ്രാദേശിക ഇന്ത്യൻ സന്ദർഭവുമായി ഏത് തലത്തിലുള്ള സംയോജനമാണ് എങ്ങനെയാണ് ഈ മുഴുവൻ പ്രക്രിയയും നിങ്ങൾക്ക് അറിയാവുന്നത് പരിവർത്തനത്തെ വിലയിരുത്തുകയും സിദ്ധാന്തത്തിലേക്ക് അത് എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ നമുക്ക് കേസ് പഠനങ്ങളിലേക്ക് പോകാം തെക്കൻ കർണാടകയിലെ ബൈലക്കുപ്പെ സെറ്റിൽമെന്റാണിത് രണ്ട് ക്യാമ്പുകളുണ്ട് ഒന്ന് പഴയ ക്യാമ്പും പുതിയ ക്യാമ്പും അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മതപരമായ കെട്ടിടങ്ങളും ടിബറ്റൻ ക്യാമ്പുകളും പ്രാദേശിക ഗ്രാമങ്ങളും നിങ്ങൾക്കിവിടെ കാണാം അതിനാൽ ഇത് വളരെ ക്ലസ്റ്റേർഡ് സജ്ജീകരണമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവയിൽ ഓരോന്നിനും വളരെ സവിശേഷമായ ഒരു ലേഔട്ട് ഉണ്ട് അതിനാൽ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് പുതിയ ക്യാമ്പുകളും പഴയ ക്യാമ്പുകളും ഉണ്ട് ഓരോ ക്ലസ്റ്ററും 1960 കളിൽ വന്നപ്പോൾ അവർ അടിസ്ഥാനപരമായി കർഷകരായിരുന്നു എന്നതിനാൽ ഓരോ ക്ലസ്റ്ററും അധിഷ്ഠിതമാണ് 40 ഗുന്തകളിലായി അവർ നൽകിയ പഴയ ക്യാമ്പ് ഏകദേശം 1 ഏക്കറാണ് കൂടാതെ 1 ഗുന്ത 33 x33 അടിയാണ് അപ്പോൾ അവർ ചെയ്തത് ആ സ്ഥലത്തെ 40 ഗുന്തകളെ കൃഷിഭൂമിയായും 6 ഗുന്തകളായും വിഭജിച്ചു അതിനാൽ 6 ഗുന്തകൾ പാർപ്പിടവും 40 ഗുന്തകൾ കൃഷിഭൂമിയും ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയും എന്നാൽ 1969 ൽ പുതിയ ക്യാമ്പുകൾ രൂപീകരിച്ചപ്പോൾ അവർ ഒരു കൃഷിഭൂമിയിലെ 32 ഗുന്തകളെക്കുറിച്ചും 16 ഗുന്തകളെ പാർപ്പിട ഭൂമിയെക്കുറിച്ചും സംസാരിച്ചു ഈ പാർപ്പിട വശത്തിനും കൃഷിക്കും കൂടുതൽ സ്ഥലം ആവശ്യമാണെന്ന് അവർ ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നതിനാൽ നിങ്ങൾക്കറിയാം അതിനാൽ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് പുതിയ ക്യാമ്പുകളും പഴയ ക്യാമ്പുകളും ഉണ്ട് ഓരോ ക്ലസ്റ്ററും 1960 കളിൽ വന്നപ്പോൾ അവർ അടിസ്ഥാനപരമായി കർഷകരായിരുന്നു എന്നതിനാൽ ഓരോ ക്ലസ്റ്ററും അധിഷ്ഠിതമാണ് നിങ്ങൾക്കറിയാമോ ഈ പ്രക്രിയ മുഴുവനും പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ടിബറ്റുകാർ ഒരു കർഷകരാണെന്നും അവർ കരകൌശല വസ്തുക്കളും അവരുടെ കരകൌശലവും നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിലെ ഒരാളെ സന്യാസിയാകാൻ ആശ്രമത്തിലേക്ക് അയച്ചവരുമാണ് ട്രാൻഫോർമേഷൻ വ്യത്യസ്ത പാറ്റേണുകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പുതിയ ക്യാമ്പുകളാണ് നിങ്ങൾ ഒരു ഗ്രിഡിറോൺ പാറ്റേണിൽ റെസിഡൻഷ്യൽ കോറിന് ചുറ്റുമുള്ള കൃഷിയിടങ്ങളോടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേസമയം തെരുവുകളോടൊപ്പം ഒരു പഴയ ക്യാമ്പ് അവർ പ്ലാൻ ചെയ്തു വീടുകൾ തെരുവുകളിലൂടെയും പുതിയ ക്യാമ്പുകളിലെ കമ്മ്യൂണിറ്റി ഇടങ്ങളും തുല്യമായി പങ്കിടുന്നത് കാണുക അവ ഒരേപോലെ ആക്സസ് ചെയ്യാവുന്നതാണ് അതിനാൽ ഒരു പ്രധാന കമ്മ്യൂണിറ്റി സമ്മേളനമെന്ന നിലയിൽ ഒരു മഠം ഉണ്ട് അങ്ങനെയാണ് സെറ്റിൽമെന്റ് പാറ്റേൺ ക്രമീകരിച്ചിരിക്കുന്നത് 1960 കളിലെ ഒരു പഴയ ക്യാമ്പ് ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾക്ക് പ്രൈമറി റോഡും സെക്കന്ററി റോഡും ആശ്രമത്തിൽ നിന്നുള്ള വാസസ്ഥലവും ഇപ്രകാരമായിരുന്നു എന്നാൽ ഇന്ന് ആളുകൾ വാസസ്ഥലം കെട്ടിപ്പടുക്കാൻ തുടങ്ങുകയും പിന്നീട് അത് തിരക്കേറിയതായി മാറുകയും ചെയ്യുന്നു അങ്ങനെ അവർ ആ സ്ഥലങ്ങളുടെ തൊട്ടടുത്ത് കൈവശപ്പെടുത്താൻ തുടങ്ങി അങ്ങനെയാണ് അത് ഒരുതരം തിരക്കേറിയ സ്ഥലമായി മാറുന്നത് പുതിയ ക്യാമ്പിൽ പോലും അതിന്റെ യഥാർത്ഥ ഭാഗം എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും തുടർന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു കറുപ്പാണ് പുതിയ ക്യാമ്പിൽ പോലും മുഴുവൻ വിപുലീകരണങ്ങളും നടന്നിട്ടുണ്ട് തെരുവ് പാറ്റേണുകൾ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ പഴയ ക്യാമ്പിൽ എങ്ങനെ പ്രൈമറി റോഡും നിങ്ങൾക്ക് ആശ്രമവും ഉണ്ട് സെക്കന്ററി റോഡുകളും നിങ്ങൾക്ക് ഈ ദിശയിലേക്കുള്ള ടെറിറ്റോറി റോഡുകളും ഉണ്ട് അതിനുള്ളിൽ അത് ഒരു ചെറിയ അയൽപക്ക ബ്ലോക്കായി മാറുന്നു അങ്ങനെയാണ് സ്കെയിലിന്റെ ഒരു ബോധം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ദൃശ്യ അച്ചുതണ്ട് ഉണ്ടെന്ന് കാണാം അവരുടെ തെരുവ് പാറ്റേണുകളിലും സുഹൃത്തുക്കളിലും തെരുവ് സുഹൃത്തുക്കളിലും അവരുടെ ആശ്രമ കെട്ടിടങ്ങളിലും പ്രതിഫലിച്ച സ്വത്വബോധമുണ്ട് അതുപോലെയാണ് പുതിയ ക്യാമ്പുകളുടെ തരം വാസസ്ഥലങ്ങൾ അവയുടെ മുൻഭാഗങ്ങൾ കോമ്പൌണ്ട് ഭിത്തികൾ മുകളിലെ കൊടികൾ ടെറസുകൾ എന്നിവയുടെ സമാനമായ കലാപരമായ പ്രതിനിധാനം എന്നിവയ്ക്കൊപ്പം നിങ്ങൾക്ക് എങ്ങനെ ഏറെക്കുറെ ഏകീകൃത ഉയരങ്ങൾ കാണാൻ കഴിയും പ്ലോട്ട് സമ്പ്രദായം തുല്യ ഘടനയായി വിഭജിക്കപ്പെട്ടിട്ടുള്ളതും സ്റ്റോറും ഉഉള്ളതാണ് അവർ മരവും ധാന്യവും സംഭരിക്കുന്നതിന് ഒരു സ്റ്റോറും നിർമ്മിച്ചു അവർക്ക് ആശ്രമവും ഉണ്ട് അവിടെ ഒരു പബ്ലിക് പ്ലേസും ഉണ്ട് കൂടാതെ അവിടെ ഫുട്ബോൾ ഗ്രൌണ്ട് ചോളത്തോട്ടവും ഉണ്ട് ആശ്രമത്തിനടുത്ത് നിന്ന് എല്ലാ പൊതു സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാം നിങ്ങൾ വീടുകളുടെ രൂപങ്ങളുടെ പരിണാമം നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അവ ടെന്റുകളായിട്ടായിരുന്നു നൽകിയിരുന്നത് പിന്നെ ഗവൺമെന്റ് അഭയാർത്ഥികൾക്ക് ഓല മേഞ്ഞ മേൽക്കൂരകളും മൺ വീടുകളും നൽകുന്നു പിന്നീട് കാലക്രമേണ അവർ ഒരുതരം ഇഷ്ടികയും കോൺക്രീറ്റും ഉള്ള വീടുകളാക്കി മാറ്റി കൂടുതലും ടൈൽ റൂഫിംഗ് ഒറ്റമുറി വീടുകൾ എല്ലാ വാട്ടലും ഡബ്ബ് നിർമ്മാണങ്ങലോഡും കൂടി അവ രൂപാന്തരപ്പെട്ടു പുതിയ ക്യാമ്പ് എങ്ങനെ വികസിച്ചു തുടങ്ങി രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ പിന്നെ എങ്ങനെയാണ് അവർ ഈ വീടുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയത് അതിനാൽ രണ്ടാമത്തെ കേസ് സ്റ്റഡി ക്ലെമന്റ് പട്ടണത്തെക്കുറിച്ചാണ് ഇത് ഒരുതരം നഗര സാഹചര്യമാണ് ടിബറ്റൻ സെറ്റിൽമെന്റുകളുടെ ഒരു ഡോണ്ട്പ്ലിംഗ് ആണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ മതപരമായ ക്രമീകരണങ്ങളും ഇവിടെയുണ്ട് സ്കൂൾ മെഡിക്കൽ ക്ലിനിക്ക് സെറ്റിൽമെന്റ് ഓഫീസ് എന്നിവയുൾപ്പെടെയുള്ള ഈ പ്രധാന ലാൻഡ്മാർക്കുകളെല്ലാം അവരുടെ പൊതു സ്ഥലത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി മാറുന്നു കാരണം മിക്ക രേഖകളും സമൂഹവുമായുള്ള ബന്ധത്തിന്റെ ഭൂരിഭാഗവും ശ്രദ്ധിക്കുന്നത് അവിടെയാണ് ടിബറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആശ്രമങ്ങൾ അത് ഡെറാഡൂണിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അവർ ഇതിനകം അറിയാവുന്ന കാര്യങ്ങളുടെ ഇംപ്രഷനുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു സ്കെയിൽ അനുപാതങ്ങൾ വീണ്ടും ഒരു വലിയ മുറി എങ്ങനെ വിഭജിക്കാം വിവിധോദ്ദേശ്യ മേഖലകൾ ഡെറാഡൂണിലെ ഒരു ബഹുനില സ്ട്രക്ച്ചറുകളിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് ജാലകങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ആശ്രമങ്ങളിലും പ്രവേശന കവാടങ്ങളിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന വിൻഡോ മോഡലുകൾ ആണ് ആരെയെങ്കിലും നയിക്കാനും സെറ്റിൽമെന്റിലേക്ക് സ്വയം നയിക്കാനും ഇത് പ്രതിഫലിക്കുന്നു ഇതാണ് ടിബറ്റൻ ഓറിയന്റേഷൻ വീടുകളിലെ ചില പരമ്പരാഗത ജനാലകൾ ഇവയാണ് അതേസമയം ചോഗ്ലാംസാറിൽ ടിബറ്റൻ പരിസ്ഥിതിയോടും ജീവിതശൈലിയോടും ലഡാക്കികളോടും വളരെ അടുത്തായതിനാൽ അവർക്ക് സമാനമായ ഒരു സംസ്കാരമുണ്ട് ആ രീതിയിൽ പരിസ്ഥിതിയോട് അടുത്ത് നിൽക്കുന്നതിനാൽ ഇവിടെ സ്വാംശീകരണം സാധ്യമായിരുന്നു ഇവിടെയും ക്യാമ്പ് സെറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് തോടും കനാലും പുഴയോടുo ചേർന്ന് ആണ് ക്യാമ്പ് 1 ന്റെ മുഴുവൻ സജ്ജീകരണവും ഇവിടെയും തുടക്കത്തിൽ ഇത് മാനസിക ഭൂപടത്തിൽ നിന്ന് അവൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു ക്യാമ്പുകൾ ഇങ്ങനെയാണ് സ്ഥിരതാമസമാക്കിയത് പിന്നീട് അത് വികസിച്ചു നിങ്ങൾക്ക് വിദ്യാഭ്യാസ ഇടങ്ങളും ഞങ്ങൾക്ക് ബുദ്ധമത പഠനങ്ങൾക്കായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് അവയ്ക്ക് ചുറ്റും കമ്മ്യൂണിറ്റി ഇടങ്ങളുണ്ട് അതിനാൽ അഭയം തേടുന്ന ഒരു ഘട്ടത്തിൽ അവർ ചെയ്യുന്നത് കനാലിൽ U ആകൃതിയിലുള്ള പാറ്റേണിൽ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുകയാണ് കാരണം കനാൽ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൊന്നാണ് ഇവിടെ അവർ കൂടാരത്തലവനോട് സംസാരിക്കുന്നു സെറ്റിൽമെന്റ് ഓഫീസ് എന്നും ഇത് അറിയപ്പെടുന്നു ഇവിടെ എല്ലാ ഫസിലിറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സും സ്കൂളും ഉണ്ട് അവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇത് ലേ മണാലി ഹൈവേയാക്കുന്നത് അവർ അത് എങ്ങനെയാണ് U ആകൃതിയിൽ പ്രോഗ്രാം ചെയ്തത് അഭയാർത്ഥികളായി സ്ഥിരതാമസമാക്കിയ ഇവരെയെല്ലാം തൊഴിലാളികളായി സൈനിക ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് അവർ സ്ഥലത്ത് ഒത്തുകൂടുന്നത് അങ്ങനെയാണ് ട്രക്കുകൾ വരുന്നത് അങ്ങനെ ഇത് ഒരുതരം പൊതുസ്ഥലം ആയി അതിനാൽ ഒന്നും രണ്ടും 1 5 മൂന്നാം തലമുറകളിൽ അവർ ഇപ്പോഴും വിശ്വസിക്കുന്നതിനാൽ ആദ്യ തലമുറയിലേക്ക് തിരികെ പോകാൻ അവർ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന വളരെ നല്ല ഒരു പ്രധാന പ്രതികരണം നമുക്ക് കാണാൻ കഴിയും ടിബറ്റിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴുള്ള അവരുടെ ഓർമ്മകൾക്കുള്ളിൽ ആദ്യത്തെയും 1 5 ഉം രണ്ടാം തലമുറയിലെയും ഭൂപ്രകൃതി വ്യത്യാസങ്ങളോടെ അവർ സിസ്റ്റവുമായി വളരെയധികം സംയോജിപ്പിച്ചിരിക്കുന്നു ഭാഷാ സമാനതകളും സാംസ്കാരിക സമാനതകളും ഉൾപ്പെടെ ലഡാക്കി കമ്മ്യൂണിറ്റിയുമായി കൂടുതൽ നന്നായി സംയോജിപ്പിക്കാനും മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞു മൂന്നാം തലമുറയിൽ വ്യക്തമായും അവർക്കും ടിബറ്റിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുതരം സമ്മിശ്ര പ്രതികരണം ഉണ്ടാകാം എന്നെങ്കിലും അവർ തിരികെ പോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അവരുടെ പരമ്പരാഗത വസ്ത്രധാരണത്തിലും അവരുടെ ജീവിതരീതിയിലും ഇത് പ്രതിഫലിക്കുന്നു അതിനാൽ പല തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ട് അതിനാൽ ഇന്ന് പരമ്പരാഗത പാറ്റേണുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ദലൈലാമയുടെ വസതിയുണ്ട് അവർക്ക് തുറന്ന ഇടം ഉണ്ട് അവർ ദലൈലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു അവർ വ്യത്യസ്ത ടെന്റുകളിൽ ഒത്തുകൂടുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് തുടർന്ന് ഈ കൂടാരങ്ങൾ അവർ 2 3 ദിവസം അവിടെ ചെലവഴിക്കാൻ ഒരു കൂട്ടമായി വന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ആഘോഷിക്കുന്നു അതിനാൽ ബൈലക്കുപ്പെ ക്ലെമന്റ് ടൌൺ ചോഗ്ലാംസാർ എന്നിവിടങ്ങളിൽ ഇങ്ങനെയാണ് പരിവർത്തനം സംഭവിച്ചത് ഇവിടെ മൊത്തത്തിൽ അതിന്റെ നിർമ്മിത രൂപത്തിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ സന്ദർഭം വ്യത്യസ്തമാണ് പിന്നെ 2 വശങ്ങളുണ്ട് ഒരാൾ സാംസ്കാരിക സ്വത്വം സൃഷ്ടിക്കുന്ന ഘടനകൾ എടുക്കുന്നു മറ്റൊന്ന് സാംസ്കാരിക തുടർച്ച അവർ എന്താണ് തുടർന്നു ടിബറ്റിൽ നിന്ന് അവർ തിരികെ കൊണ്ടുവന്നത് അവർ ഇവിടെ നിന്ന് സ്വീകരിച്ചത് എന്താണ് അത് പോലെ ഉദാഹരണത്തിന് അവർക്ക് ഒരു പാരമ്പര്യമായിരുന്ന പൊലിയാന്ഡറി എന്നാൽ ഈ 2 കേസുകളിൽ അത് നിർത്തലാക്കപ്പെട്ടു എന്നാൽ ചില സന്ദർഭങ്ങളിൽ ടിബറ്റന് സമീപമുള്ള ചോഗ്ലാംസാറിൽ അവ ഭാഗികമായി തുടർന്നു അതിനാൽ നിങ്ങൾക്കറിയാവുന്ന കുടുംബത്തോടൊപ്പം സന്യാസം ചെയ്യുന്ന ഒരു പ്രധാന ആചാരം കുടുംബത്തിൽ നിന്ന് ഒരാളെ സന്യാസിയാകാൻ അയയ്ക്കുന്നത് നിർത്തലാക്കി സന്യാസിമാർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി നിങ്ങൾക്കറിയാമോ അത് ഒരേ സ്ഥലത്ത് നിന്ന് മാത്രമല്ല അതിനാൽ അത് പോലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പലതരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഓരോന്നിലൂടെയും കടന്നുപോകുന്നില്ല എന്നാൽ ഇത് ഒരുതരം ചട്ടക്കൂടാണ് അവർ എന്താണ് തുടർന്നതെന്നും അവർ ഇവിടെ സ്വീകരിച്ചതെന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചട്ടക്കൂട് ആണെന്ന് ഞാൻ തുടരുന്നു അതുപോലെ നിങ്ങൾക്കറിയാവുന്ന വിദ്യാഭ്യാസം ടിബറ്റിൽ നിന്ന് ആശ്രമങ്ങൾ പുനഃസ്ഥാപിച്ചതെങ്ങനെ മതവിദ്യാഭ്യാസം എങ്ങനെ തുടർന്നു സ്കൂളുകളുടെ വിദ്യാഭ്യാസത്തിൽ സാംസ്കാരിക തുടർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു നിങ്ങൾക്ക് അറിയാം ഭാഷയും സമൂഹത്തിലെ സമത്വവും സാമൂഹിക വർഗം സാമൂഹിക വിഭാഗങ്ങളിൽ സമത്വം കൊണ്ടുവരുന്നതിലൂടെ പ്ലോട്ട് വിതരണം എങ്ങനെ പ്രതിഫലിക്കുന്നു അതുപോലെ അവർക്ക് മൊണാസ്ട്രികളുണ്ട് അവയ്ക്ക് പൊതുവായി നിർമ്മിച്ച രൂപമുണ്ട് അവ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അവൾ ഡാറ്റയെ വ്യത്യസ്ത പോക്കറ്റുകളിൽ ആക്കുന്നതെങ്ങനെയെന്നു വിശദീകരിക്കുന്നു കൂടാതെ ഒരു വീടിന്റെ രൂപവും സാമഗ്രികളും അവ എങ്ങനെ മാറിയിരിക്കുന്നു ഇപ്പോൾ വെയിലേറ്റ ഈസ്റ്റികകളും മണ്ണ് ഭിത്തികളും അവ രണ്ടും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നാൽ ഇവിടെ അത് പ്രാദേശികമായി ലഭ്യമായതിനാലും പ്രാദേശിക കാലാവസ്ഥാ സാഹചര്യങ്ങളുമായും ഇണങ്ങുന്നതുകൊണ്ടും ഇവിടെ ഉണ്ടായിരുന്നു അതിനാൽ ഒരു വലിയ ഷീറ്റിൽ മുഴുവൻ ചട്ടക്കൂടും പ്രയോഗിക്കുന്നതിന്റെ ഒരു തരം സംഗ്രഹമാണിത് തീർച്ചയായും അത് ഇപ്പോൾ വ്യക്തമല്ല എന്നാൽ ഒരു വശത്ത് സാംസ്കാരിക ഐഡന്റിറ്റി സൃഷ്ടിക്കുന്ന ഘടനകൾ നമുക്കുണ്ട് മറുവശത്ത് അത് സ്പേഷ്യൽ ഘടനകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ലഭിക്കും മുഴുവൻ കണ്ടെത്തലുകളും സംഗ്രഹിക്കാൻ ടിബറ്റൻ അഭയാർത്ഥികളുടെ ഹൈബ്രിഡ് സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് സ്പെഷ്യൽ കോംപോണേന്റ് രാഷ്ട്രീയ പ്രക്ഷുബ്ധത നിലനിന്നിരുന്നപ്പോൾ ടിബറ്റിൽ അവർക്ക് അന്തർനിർമ്മിത അന്തരീക്ഷം എന്തായിരുന്നു അവിടെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് നിർമ്മിച്ച അഭയാർത്ഥി വാസസ്ഥലം ക്രമേണ അവർ പുതിയ നിർമ്മിത പരിസ്ഥിതിയെ എങ്ങനെ പൊരുത്തപ്പെടുത്തുന്നു അവിടെയാണ് സംഘർഷങ്ങൾ വരുന്നത് ഈ ദീർഘകാല പ്രക്രിയയിലൂടെ ഒരു അഡാപ്റ്റേഷൻ ഘട്ടവും ഹൈബ്രിഡ് സെറ്റിലിമെന്റും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ഒരു സാംസ്കാരിക ഘടകത്തിൽ ടിബറ്റ് അവരുടെ ഉത്ഭവത്തിന്റെ പരിതസ്ഥിതിയെക്കുറിച്ച് അവർക്കറിയാം അതാണ് അവർ കേവലമായ ഇടം കൊണ്ട് പ്രതിഫലിപ്പിക്കുന്നത് കാരണം അതാണ് അവർക്ക് ഇതിനകം അറിയാവുന്ന സ്ഥലം പക്ഷേ ഇവിടെ അഭയം തേടുന്നവരുടെ ഘട്ടം ആതിഥേയ പരിസ്ഥിതിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ചില സങ്കൽപ്പിക്കപ്പെട്ട ഇടം നൽകുന്നു അവിടെയാണ് സങ്കൽപ്പിച്ച സ്ഥലം അതിന്റെ മുന്നിൽ കണ്ടെത്തുന്നത് അതിനെ അമൂർത്തമായ ഇടം എന്ന് വിളിക്കുന്നു അതോടെ ആളുകൾ ഇതുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി അവിടെയാണ് അവർ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുന്നത് അവിടെയാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയാണ് ഞങ്ങൾ വൈരുദ്ധ്യമുള്ള സ്ഥലത്തെക്കുറിച്ചും ക്രമേണ കാര്യങ്ങൾ പൊരുത്തപ്പെടുമ്പോൾ തലമുറ നീങ്ങിയപ്പോൾ അവ എങ്ങനെയെന്നും സംസാരിക്കുന്നു അവർ എങ്ങനെ പൊരുത്തപ്പെട്ടു എങ്ങനെ അവരുടെ സമ്പ്രദായങ്ങൾ തുടരുന്നു അവിടെയാണ് ഒരു ഡിഫറൻഷ്യൽ സ്പേസ് വരുന്നത് അതിനാൽ മുഴുവൻ സൈദ്ധാന്തിക ധാരണയും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ മുഴുവൻ പരിവർത്തനവും നിർമ്മിത പരിസ്ഥിതിയിൽ സ്വാധീനം ചെലുത്തുന്നത് സ്പേസുകൾ സ്ട്രീറ്റ് സിസ്റ്റം പ്ലോട്ട് സിസ്റ്റം കെട്ടിടങ്ങൾ മെറ്റീരിയലുകൾ എന്നിവയുടെ വിവിധ ശ്രേണികൾ നിങ്ങൾക്കുണ്ട് പിന്നെ സ്ഥലത്തിന്റെ ലഭ്യത എങ്ങനെ എന്ന് വിവിധ ആശയങ്ങളിൽ വിവരിച്ചിരിക്കുന്നു ഈ പരിവർത്തനങ്ങളുടെ ചാലകങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹൈബ്രിഡ് ടിബറ്റൻ സെറ്റിൽമെന്റിലെ സാംസ്കാരികവും നിർമ്മിതവുമായ ചുറ്റുപാടുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്ന് ഉപജീവന വാസസ്ഥലത്തിലുണ്ടായ മാറ്റവും ഭൂമിശാസ്ത്രവും ആതിഥേയ സമൂഹം ജീവിക്കുന്ന രീതിയും അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് അതിനാൽ ലഡാക്കിൽ അവർ ടിബറ്റിൽ ജീവിച്ചിരുന്നതിന് വളരെ അടുത്താണ് സാമൂഹിക വർഗ്ഗ വ്യവസ്ഥയിൽ തുല്യത ഉണ്ടായിരുന്നു അത് കാരണം തുല്യ പ്ലോട്ട് ഡിസ്ട്രിബൂഷൻ അവർ നേടിയെടുത്തു അതിനാൽ സ്ഥലങ്ങളുടെ വ്യത്യസ്തവും ദൃശ്യപരവുമായ 3 സ്വഭാവം നമുക്കിവിടെ കാണാം ഉത്സവങ്ങൾ എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു അത് എങ്ങനെ മാറി അവ എങ്ങനെ സമന്വയിപ്പിച്ചു സജീവമായ സാമൂഹിക ജീവിതവും ഈ സ്ഥലങ്ങൾ എങ്ങനെ പ്രദാനം ചെയ്യുന്നു എന്നതും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു ഒരു ഹൈബ്രിഡ് ടിബറ്റൻ അഭയാർത്ഥി സെറ്റിൽമെന്റിലെ സാംസ്കാരികവും നിർമ്മിതവുമായ പരിതസ്ഥിതികൾ തമ്മിലുള്ള ബന്ധം എന്താണ് അതിനാൽ കന്നുകാലി തൊഴുത്തുകൾ ഇപ്പോൾ കുറച്ചു ഒരു തൊഴിൽപരമായ ഷിഫ്റ്റായി മാറുകയും ചെയ്തു വിനോദസഞ്ചാര വ്യവസായം വന്നതിനാൽ കരകൌശലവസ്തുക്കൾ ഇപ്പോൾ ഫാക്ടറി നിർമ്മിക്കപ്പെടുന്നു ഭക്ഷണ ശീലങ്ങളിലും ടൂറിസത്തിന് വലിയ സ്വാധീനം ഉള്ളതിനാൽ റസ്റ്റോറന്റ് ടൈപ്പോളജികൾ വികസിച്ചു ശവസംസ്കാരത്തിലും അവ സ്വാതീനം ചെലുത്തുന്നു മുമ്പ് അവ വ്യത്യസ്തമായ പ്രക്രിയയായിരുന്നു ഇപ്പോൾ അവർ ദഹിപ്പിക്കുന്നു ഇവിടെയാണ് അവർക്ക് ഒരു ശ്മശാന സ്ഥലങ്ങൾ ആവശ്യമായി വരുന്നത് അതുപോലെ ദിവ്യാധിപത്യ ഗവൺമെന്റും മാറ്റപ്പെട്ടിരിക്കുന്നു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങൾക്കറിയാം ഈദലൈലാമയുടെ വസതിയും അതുപോലുള്ള കാര്യങ്ങളും പോലും ഇല്ല അതിനാൽ അത് സാമ്പത്തിക സ്ഥിതി ആശ്രമം ഭവന രൂപങ്ങൾ എന്നിവയിലും പ്രതിഫലിച്ചു അതിനാൽ ഞങ്ങൾ ഇവിടെ നിരീക്ഷിക്കുന്നത് വീടിന്റെ രൂപങ്ങൾ ഗണ്യമായി മാറിയെങ്കിലും മഠങ്ങൾ നിലനിർത്തി കാരണം മതപരമായ പ്രാധാന്യം ടിബറ്റന്മാരിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനാൽ സെറ്റിൽമെന്റ് ക്രമീകരണത്തിന്റെ സെറ്റിങ്ങുകൾ അത് ഒരു സന്യാസ ക്രമീകരണത്തിൽ ഒരു വാസസ്ഥലത്ത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നിങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബൈലക്കുപ്പയിൽ ഏറ്റവും സ്വയം സുസ്ഥിരവും അതുപോലെ തന്നെ ചോഗ്ലാംസാറും വംശീയ സമാനതകളോടും സാന്ദർഭികമായ സാമ്യതയോടും വളരെ സാമീപ്യമുള്ളതിനാൽ ഇവിടെ ഭൂമി ലഭ്യതയുടെ അഭാവവും സജീവമല്ലാത്ത സാമൂഹിക ഇടങ്ങളുമുണ്ട് നഗരവികസനത്തിന്റെ സമ്മർദ്ദവും മതം കാലാവസ്ഥാ സന്ദർഭം സമ്പദ്വ്യവസ്ഥ വിനോദസഞ്ചാരം വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിവയും അവ ഈ സ്ഥലത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതുമായിരുന്നു പ്രധാന ചാലകശക്തികളിൽ ചിലത് അതിനാൽ യഥാർത്ഥത്തിൽ ലെഫെബ്വ്രെLefebvre'sയുടെ കൃതി ഇതുപോലെയാണ് പക്ഷേ ഇവിടെ അത് സങ്കൽപ്പിക്കപ്പെട്ടത് കുടിയേറ്റത്തിന് മുമ്പുള്ള ടിബറ്റും അഭയം തേടുന്നവരുടെ ഘട്ടമായ പ്രീ അമൂർത്തമായ സ്ഥലവുമാണ് തുടർന്ന് ഇവിടെയാണ് അമൂർത്തമായ സ്ഥിരമായ സെറ്റിൽമെന്റ് പ്രക്രിയ വൈരുദ്ധ്യമുള്ളതും വ്യത്യസ്തമായതുമായ ഇടം ഞങ്ങൾക്ക് ശരിയായി അറിയാമെങ്കിൽ ഈ വൈരുദ്ധ്യമുള്ള ഇടം ഒഴിവാക്കാൻ നിങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം ജീവിച്ചിരിക്കുന്ന ഇടം കൂടുതൽ ശ്രദ്ധയോടെ കൊണ്ടുവരാൻ നിങ്ങൾക്കറിയാം അങ്ങനെ നമുക്ക് സംഘർഷ ഘട്ടം കുറയ്ക്കാൻ കഴിയും അതിലൂടെ അവർക്ക് എളുപ്പത്തിൽ പൊരുത്തപ്പെടാനും അവർക്ക് ചില കാര്യങ്ങൾ എളുപ്പത്തിൽ തുടരാനും കഴിയും അതേ സമയം അത് രണ്ട് സമുദായങ്ങൾക്കും പ്രയോജനകരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടിബറ്റൻ പശ്ചാത്തലത്തിൽ അഭയാർത്ഥികളുടെ സ്ഥാനചലനത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു വളരെയധികം നന്ദി